ആദ്യ ഒന്നും രണ്ടും പാഠ ഭാഗങ്ങളിലായി എന്താണ് കോസ്റ്റ് അക്കൌണ്ടിങ് എന്നതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു ചെലവിന്റെ വർഗ്ഗീകരണവും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ കോസ്റ്റ് വോളിയം പ്രോഫിറ് അനാലിസിസ് അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റിംഗിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് അതിന് മുമ്പ് നമുക്ക് വളരെ ചുരുക്കത്തിൽ ഒരു തിരിഞ്ഞുനോട്ടം നടത്താം ചെലവിന്റെ വിവിധ വർഗ്ഗീകരണങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു ചെലവ് വർഗ്ഗീകരണത്തിനുള്ള ഒരു മാർഗം ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് ചെലവിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ സാമഗ്രികൾ തൊഴിലാളികൾ മറ്റു ചെലവുകൾ തുടങ്ങിയവയാണ് അവയെന്ന് നിങ്ങളിൽ മിക്കവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു ചെലവ് വർഗ്ഗീകരിക്കുന്നതിനുള്ള ഏറ്റവും പഴയ മാർഗങ്ങളിലൊന്നാണ് ഇത് പിന്നീട് പ്രവർത്തനപരമായ വർഗ്ഗീകരണം വന്നു പ്രവർത്തനം അനുസരിച്ച് നിങ്ങൾ ചെലവ് എങ്ങനെ തരംതിരിക്കും ഉൽപ്പാദനച്ചെലവ് പ്രവർത്തനം നിയന്ത്രിക്കുന്ന ആൾക്കുള്ള ചെലവ് വിപണന ചെലവ് വിൽപനച്ചെലവ് ആർ ഡി R D ചെലവ് തുടങ്ങിയവയാകാം പ്രത്യക്ഷവും പരോക്ഷവുമായ ചെലവിനെ അടിസ്ഥാനമാക്കി ചെലവിന്റെ ഒരു വർഗ്ഗീകരണം ഉണ്ടെന്നും നിങ്ങൾക്കറിയാം ഇവ മൂന്നും പ്രാഥമികമായി അക്കൌണ്ടിംഗിനും നിയന്ത്രണ ആവശ്യങ്ങൾക്കും ഉപയോഗപ്രദമാണ് നിയന്ത്രണ ആവശ്യങ്ങൾക്കായുള്ള മറ്റൊരു ഉപയോഗപ്രദമായ വർഗ്ഗീകരണം നിയന്ത്രിക്കാവുന്നതും നിയന്ത്രിക്കാനാകാത്തതുമായ ചെലവും കൂടാതെ ഉൽപ്പന്ന വിലയും കാലയളവിലെ ചെലവുമാണ് തീരുമാനങ്ങൾ എടുക്കുന്ന അവസരത്തിൽ പ്രധാനമായും മൂന്നുതരം ചെലവ് വർഗ്ഗീകരണങ്ങൾ ഉണ്ട് അവയെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നതിനോ അസ്ഥിരതയുടെ അടിസ്ഥാനത്തിൽ ചിലവിനെ മനസ്സിലാക്കുന്നതിനോ എന്തെല്ലാം തരത്തിലുള്ള ചെലവ് വർഗീകരണമാണ് നടത്തുന്നതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ നമ്മൾക്ക് വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും ലഭിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഒരേ വേരിയബിൾ കോസ്റ്റ് സ്ഥിരവും അസ്ഥിരവുമായ സ്വഭാവം കാണിക്കുന്നുണ്ട് പ്രസക്തമായ ചെലവും മുങ്ങിപ്പോയ ചെലവുകളും അടിസ്ഥാനമാക്കിയുള്ള ചെലവ് വർഗ്ഗീകരിക്കുന്നതിനുള്ള മറ്റൊരു മാർഗ്ഗം കൂടിയുണ്ട് ഇപ്പോൾ ഈ വർഗ്ഗീകരണങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വളരെ പ്രധാനമാണ് എന്നാൽ അവ നിയന്ത്രണ ആവശ്യങ്ങൾക്കും അക്കൌണ്ടിംഗ് ആവശ്യങ്ങൾക്കും ആയിട്ടുള്ള വർഗീകരണത്തിന് അത്രത്തോളം പ്രധാനമല്ല എന്നാൽ തീരുമാനങ്ങൾ എടുക്കേണ്ട അവസരത്തിൽ ഈ വർഗീകരണം ഒരു പ്രധാന പങ്കു വഹിക്കുന്നു വേരിയബിൾ ചെലവ് എന്താണെന്ന് നിങ്ങൾ ഇപ്പോൾ ഓർക്കുന്നുണ്ടോ പ്രവർത്തന നിലവാരത്തിനൊപ്പം നേരിട്ടുള്ള അനുപാതത്തിൽ മാറുന്ന ഒരു ചെലവ് വേരിയബിൾ കോസ്റ്റായി കണക്കാക്കുമെന്ന് നിങ്ങളിൽ മിക്കവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനാൽ 100 യൂണിറ്റിന് 1000 ആണെങ്കിൽ 200 യൂണിറ്റിന് 2000 ആയി യൂണിറ്റുകൾ Unit's വർദ്ധിക്കുമ്പോൾ അതേ അനുപാതത്തിൽ ചെലവും വർദ്ധിക്കുന്നു അപ്പോൾ അതിനെ വേരിയബിൾ കോസ്റ്റെന്ന് വിളിക്കുന്നു ഇവയ്ക്കെതിരായി പ്രവർത്തന നിലവാരത്തിനനുസരിച്ച് മാറാത്ത മറ്റൊരു തരത്തിലുള്ള ചെലവുമുണ്ട് അതിനാൽ 100 യൂണിറ്റിന് 1000 ആണെങ്കിൽ 200 യൂണിറ്റിനും അത് 1000 ആയി തുടരും അപ്പോൾ അത് നിശ്ചിത ചെലവായി കണക്കാക്കും അപ്പോൾ മൊത്തത്തിൽ രണ്ടു തരം ചെലവുകളെ ഉള്ളൂ സ്ഥിരവും അസ്ഥിരവും എന്നാൽ രണ്ടിന്റെയും സ്വഭാവം കാണിക്കുന്ന ചില അസ്ഥിരമായ ചെലവുകളും സ്ഥിര ചെലവുകളും ഉണ്ട് അവയെ സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് വിളിക്കുന്നു ഞാൻ ഇതൊക്കെ ആവർത്തിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്നത് പ്രധാനമായും അസ്ഥിരമായ ചെലവ് വർഗീകരണത്തെ അടിസ്ഥാനമാക്കിയുള്ള കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് വിശകലനമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ പാഠഭാഗവുമായി മുന്നോട്ടുപോകാം ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഫിക്സഡ് വേരിയബിളിനെക്കുറിച്ചും സെമി വേരിയബിൾ കോസ്റ്റിനെ കുറിച്ചുമാണ് തുടർന്ന് സംഭാവന മാർജിൻ എന്താണെന്ന് നോക്കാം പിന്നീട് ബ്രേക്ക്ഈവൻ പോയിന്റ് പിവി അനുപാതത്തെക്കുറിച്ചും ചർച്ച ചെയ്യാം കൂടാതെ അടുത്ത പാഠഭാഗത്ത് തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഈ വർഗീകരണം എങ്ങനെ സഹായകമാകുമെന്നും കാണാം ഇന്ന് നമ്മൾ ചെലവുകളുടെ വ്യതിയാനത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ അടിസ്ഥാനമാക്കി ചെറിയ ചില കേസുകൾ പരിഹരിക്കാൻ ശ്രമിക്കും അപ്പോൾ എന്താണ് CVP വിശകലനം ഇത് മൂന്ന് വേരിയബിളുകളുടെ വിശകലനമാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ചെലവ് ഒരുഭാഗത്ത് പിന്നെ വ്യാപ്തി വ്യാപ്തി ചില ചെലവുകളെ ബാധിക്കുന്നു എന്നാൽ സ്ഥിരമായ ചിലതിനെ ബാധിക്കുന്നില്ല ചെലവിന്റെ അസ്ഥിരത കാരണം അത് വ്യത്യാസപ്പെടുകയും ചെയ്യാം ഇവ രണ്ടും ലാഭത്തെ ബാധിക്കുന്നു കാരണം വ്യാപ്തി വരുമാനത്തെയും ചെലവിനെയും ബാധിക്കും സ്വാഭാവികമായും ലാഭത്തിന്റെ ഫലമുണ്ടാകും ഇതിൽ പ്രവർത്തനത്തിന്റെ തോത് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുന്നു അത് വരുമാനച്ചെലവിലും ഫലമായുണ്ടാകുന്ന ലാഭത്തിലും അതിന്റെ സ്വാധീനം ചെലുത്തുന്നു ആത്യന്തികമായി നമ്മുടെ പ്രധാന ലക്ഷ്യം വ്യാപ്തിയിൽ ഉണ്ടാകുന്ന മാറ്റം എങ്ങനെ ചെലവിനെയും ലാഭത്തെയും ബാധിക്കുന്നുവെന്നും അതിൽ എന്തെല്ലാം മാറ്റം വരുത്തും എന്നും അറിയുക എന്നതാണ് സ്ഥിരമായ ചിലവുകൾ എന്തെന്നാൽ ഇവ പ്രവർത്തന നിലവാരത്തിനനുസരിച്ച് മാറാത്തതോ ഫലത്തിനോ വിറ്റുവരവിനോ അനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കാത്ത ചെലവുകളാണ് സ്വാഭാവികമായും അവ ഒരു പ്രത്യേക കാലഘട്ടവുമായി ബന്ധപ്പെട്ട ചെലവാണ് അവയ്ക്ക് ഉൽപ്പാദനവുമായോ ഉൽപ്പന്നത്തിന്റെ വിവിധ തലങ്ങളുമായോ പ്രവർത്തന തലങ്ങളുമായോ യാതൊരു ബന്ധവുമില്ല അവ കാലയളവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ അവയെ നിശ്ചിത ചെലവ് എന്ന് വിളിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് നിശ്ചിത ചെലവുകളുടെ ചില ഉദാഹരണങ്ങൾ നൽകാമോ വ്യത്യസ്ത വ്യവസായങ്ങളിൽ നമുക്ക് വ്യത്യസ്തമായ ഉദാഹരണങ്ങൾ ഉണ്ടാകാം എന്നാൽ മനസ്സിലാക്കാനുള്ള എളുപ്പത്തിനായി നമുക്ക് ഒരു ടാക്സിയായി ഉപയോഗിക്കുന്ന ഒരു കാർ ഉണ്ടെന്നും നമ്മളത് യാത്രക്കാരുടെ ഗതാഗതത്തിനായി ഉപയോഗിക്കുന്നുവെന്നും കരുതാം അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിലെ നിശ്ചിത ചെലവുകൾ എന്തായിരിക്കും നിങ്ങളിൽ മിക്കവർക്കും അത് ശരിയായി ഊഹിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് ഒരു വാഹനമുണ്ടെങ്കിൽ നിങ്ങൾ വാഹനത്തിന് ഇൻഷുറൻസ് നൽകണം ആ ഇൻഷുറൻസ് 1 മാസത്തേക്കോ 1 വർഷത്തേക്കോ ആയിരിക്കും ഇത് ഒരു കാലയളവ് ചെലവാണ് നിങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന കിലോമീറ്ററുകളുടെ എണ്ണത്തിനനുസരിച്ച് ഇത് മാറില്ല അതിനാലാണ് ഇത് സ്ഥിരമായി കണക്കാക്കുന്നത് കാറിന്റെ രജിസ്ട്രേഷന് ചില ചെലവുകളുണ്ട് അതുപോലെ നമ്മൾ നൽകേണ്ടിവരുന്ന ചില കരങ്ങൾ നമ്മൾ എത്രത്തോളം കാർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയാ യിരിക്കില്ല ഇത് സ്ഥിര ചെലവാണ് കാർ വാങ്ങുമ്പോൾ ചില മൂലധനച്ചെലവ് വരുത്തിയതിനാൽ വിലയിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് അത് ചെറിയ കാലയളവിൽ നിങ്ങൾ എഴുതിത്തള്ളും അതിനാൽ എല്ലാ വർഷവും മൂല്യത്തകർച്ച ഈടാക്കും ഇത് പണമില്ലാത്ത ചെലവാണെങ്കിലും ഇത് പ്രധാനപ്പെട്ട ചെലവുകളിൽ ഒന്നാണ് അത് വീണ്ടും പ്രകൃത്യാ നിശ്ചയിച്ചിരിക്കുന്നു ഒരു പ്രത്യേക വ്യവസായത്തിലുള്ള നിശ്ചിത ചെലവിനെ കുറച്ച് ഉദാഹരണങ്ങൾ ആണ് ഇവ കുറച്ച് ഉദാഹരണങ്ങൾ കൂടി ഇവിടെ നൽകിയിരിക്കുന്നു നിങ്ങൾ ഒരു വ്യവസായ സ്ഥാപനം പ്രവർത്തിക്കുകയാണെങ്കിൽ അതിന്റെ വാടക ഇൻഷുറൻസ് തുടങ്ങിയവ നൽകേണ്ടി വന്നേക്കാം അതിനാൽ ഒരു വ്യവസായ സ്ഥാപനത്തിന്റെ നിർമ്മാണത്തിന് ഇവയാണ് നിശ്ചിത ചെലവുകൾ പ്രവർത്തനത്തിന് തോത് പരിഗണിക്കാതെ തന്നെ മാറ്റമില്ലാത്ത പ്രകൃത്യാ നിശ്ചയിച്ചിട്ടുള്ള ചില ചെലവുകൾ നിങ്ങൾക്ക് പറയാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നു അവ നിശ്ചിത ചെലവുകളായി കണക്കാക്കും നിങ്ങൾ ഇപ്പോൾ ഈ ചെലവുകളുടെ ഒരു രൂപരേഖ തയ്യാറാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവ ഇങ്ങനെയാകും കാണപ്പെടുക മനസ്സിലാകുന്നുണ്ടോ അതിനാൽ മൊത്തത്തിൽ തിരശ്ചീനമായ ഈ ചുവന്ന രേഖ നിങ്ങൾക്ക് ലഭിക്കുന്നു യൂണിറ്റുകളുടെ Unit's എണ്ണം 0 ൽ നിന്ന് 800 ലേക്ക് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും 0 ത്തിൽ ചെലവ് 80000 ആണ് 800 ൽ പോലും അത് 80000 ആയി തുടരും സൈദ്ധാന്തികമായി നിശ്ചിത ചെലവുകൾ ഒരു ഘട്ടത്തിലും മാറുമെന്ന് കരുതുന്നില്ല അത് എല്ലായ്പ്പോഴും സത്യമാകണമെന്നില്ല ഉദാഹരണത്തിന് യൂണിറ്റുകളുടെ Unit's എണ്ണം 5000 ത്തിന് മുകളിൽ പോകുകയാണെങ്കിൽ ചെലവ് വർധിച്ചേക്കും എന്നാൽ നൽകിയിരിക്കുന്ന പരിധിക്കുള്ളിൽ ചില സാഹചര്യങ്ങളിൽ അവയ്ക്ക് മാറ്റം സംഭവിക്കുന്നില്ല അതിനാൽ നിങ്ങളുടെ സമ്പാദന ശേഷി എത്രത്തോളമായിരുന്നാലും ഒന്നുകിൽ നിങ്ങൾ 0 ശതമാനം ഉത്പാദിപ്പിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പാദന ശേഷിക്ക് മുകളിൽ 100 120 അല്ലെങ്കിൽ 130 ശതമാനം നിശ്ചിത നിരക്കുകൾ ആയി നിർമ്മാണം നടത്തണം ശേഷിയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള നിശ്ചിത ചെലവുകൾ തിരശ്ചീന രേഖയ്ക്ക് അനുസൃതമായി മാറുകയില്ല മുകളിലേക്ക് പോകുന്ന ഒരു കറുത്ത രേഖ നിങ്ങൾക്ക് കാണാനാകും അതാണ് മൊത്തം ചെലവ് രേഖ അതുതന്നെയാണ് മൊത്തം ചെലവും അവയ്ക്ക് ഒരു നിശ്ചിത ഘടകമുണ്ട് അവ പ്രവർത്തന നിലവാരത്തിനനുസരിച്ച് മാറുകയില്ല അടുത്ത ചെലവ് വേരിയബിൾ ചെലവാണ് എന്നാൽ അതിലേക്ക് പോകുന്നതിനു മുൻപ് ഒരു കാര്യം നിശ്ചിത ചിലവുകൾ ഒരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല എന്നാണോ ഇത് അർത്ഥമാക്കുന്നത് ഗ്രാഫിൽ ഇത് പൂർണ്ണമായും പരന്നതോ തിരശ്ചീനം ആണെന്ന് കാണാനാകും എങ്കിലും അത് ശരിയല്ല സൈദ്ധാന്തികമായി ഒരുപക്ഷേ ഇവിടെ അത് മാറില്ലായിരിക്കാം കാരണം പ്രവർത്തന തോതിൽ മാറ്റം വരുന്നില്ല എന്നാൽ എന്റെ ചോദ്യം നിശ്ചിത ചെലവുകൾക്ക് ഒരിക്കലും മാറ്റം വരുന്നില്ലേ എന്നായിരുന്നു അത് ശരിയല്ല കാരണം ഇതിന് കാലാകാലങ്ങളിൽ മാറ്റം സംഭവിക്കാം നമ്മൾ അതിന് ഉദാഹരണമായി എടുത്ത് വാടകയും ഇൻഷുറൻസും ആണ് ഈ വർഷത്തെ വാടക 10 ലക്ഷം ആണെന്നിരിക്കട്ടെ അടുത്ത വർഷം വാടക കൂടാം ഇൻഷുറൻസ് കൂടാം നികുതി നിയമത്തിലെ മാറ്റം കാരണം നികുതികൾ വർദ്ധിക്കും അടുത്ത വർഷം നികുതി നിയമത്തിൽ മാറ്റം വരണമെന്ന് നിർബന്ധമില്ല എന്നിരുന്നാലും അടുത്ത വർഷമോ അല്ലെങ്കിൽ ഈ വർഷം തന്നെയോ മറ്റു ചില കാരണങ്ങളാൽ നിശ്ചിത ചെലവുകൾ വർധിക്കുന്നു എന്നാൽ പ്രവർത്തന തോതനുസരിച്ച് അത് മാറുന്നില്ലെന്ന് മനസ്സിലായോ മറ്റൊരു തരം ചെലവ് വേരിയബിൾ ചെലവാണ് അതിന് പ്രവർത്തന തോതിന്റെ നേർ അനുപാതത്തിൽ മാറ്റം സംഭവിക്കുന്നു അതിന്റെ ചില ഉദാഹരണങ്ങൾ എന്നുപറയുമ്പോൾ നേരിട്ടുള്ള തൊഴിലാളികളുടെയോ സാമഗ്രികളുടെയോ ചെലവാണ് നിങ്ങൾ എന്തെങ്കിലും വസ്തു ഉൽപാദിപ്പിക്കുകയാണെന്ന് കരുതുക അതിന് നിങ്ങൾ നേരിട്ടുള്ള സാമഗ്രികൾ ആണ് ഉപയോഗിക്കുന്നത് സാധാരണയായി നിങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമ്പോൾ അസംസ്കൃത വസ്തുക്കളുടെ ഉപഭോഗവും അതേ അനുപാതത്തിൽ വർദ്ധിക്കും ഉൽപ്പാദനം 20 ശതമാനം വർദ്ധിക്കുകയാണെങ്കിൽ അസംസ്കൃത വസ്തുക്കളുടെ ഉപഭോഗം 20 ശതമാനം വർദ്ധിക്കും അത് ഒരു വേരിയബിൾ ചെലവായി മാറും ഒരു ടാക്സി സേവനം നടത്തുന്നതിന്റെ ഉദാഹരണമെടുത്താൽ ഞങ്ങൾക്ക് ഒരു കാർ ഉണ്ട് ഞങ്ങൾ ഒരു ടാക്സി സേവനം നടത്തുന്നു വേരിയബിൾ ചെലവ് എന്തായിരിക്കും എല്ലാ സാധ്യതകൾ പരിശോധിച്ചാലും ഇന്ധനച്ചെലവും വ്യത്യസ്തമായിരിക്കും ആയിരിക്കും നിങ്ങൾ നിങ്ങളുടെ കാർ ഒരുപാട് കിലോമീറ്ററുകൾ ഓടിക്കുകയാണെങ്കിൽ അതേ അനുപാതത്തിൽ ഇന്ധനച്ചിലവ് കൂടുകയോ കുറയുകയോ ചെയ്യാം അതുകൊണ്ടാണ് നമ്മൾ അതിനെ വേരിയബിൾ കോസ്റ്റ് എന്ന് വിളിക്കുന്നത് മനസ്സിലായോ ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ നിശ്ചിത ചെലവുകളുടെ ഒരു ഗ്രാഫ് കാണിച്ചാൽ നിങ്ങൾ എങ്ങനെയാകും അതിനെ പട്ടികപ്പെടുത്തുക നിങ്ങൾക്ക് ഒരു വേരിയബിൾ കോസ്റ്റ് ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ എങ്ങനെ വരയ്ക്കും നിങ്ങളിൽ മിക്കവർക്കും അത് കൃത്യമായി ഊഹിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു അത് ആരംഭിക്കുന്നതുതന്നെ 0 ത്തിൽ നിന്നാണ് എന്തുകൊണ്ടെന്നാൽ നിർവചനത്തിൽ പറയുന്നതുപോലെ അതിന് പ്രവർത്തനത്തിന്റെ തോതനുസരിച്ച് മാറ്റം സംഭവിക്കും അതിനാൽ അത് 0 തന്നെയായിരിക്കും ഉൽപാദിപ്പിക്കുന്ന യൂണിറ്റിനെ Unit's എണ്ണത്തിനനുസരിച്ച് അതൊരു നേർരേഖയായി പോകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്കിവിടെ 0 ത്തിൽ ആരംഭിക്കുന്ന ഒരു ചുവന്ന വര കാണാം 0 ത്തിലും ചെറിയ തുകയിൽ ഇത് ആരംഭിക്കാൻ കഴിയുകയില്ല ഘടകങ്ങൾ നിശ്ചിതമായതിനാൽ പ്രവർത്തന തോതനുസരിച്ച് ഇതിനു മാറ്റം സംഭവിക്കുന്നു അതുകൊണ്ട് ഇത് പൂജ്യത്തിൽ ആരംഭിക്കുന്നു കൂടാതെ ഇതൊരു രേഖീയ രൂപമായി ഉയരുന്നു അതാണ് വേരിയബിൾ കോസ്റ്റ് ഗ്രാഫ് സെമി വേരിയബിൾ കോസ്റ്റിൽ എന്താണ് സംഭവിക്കുന്നതെന്നു വെച്ചാൽ സൈദ്ധാന്തികമായി രണ്ട് തരത്തിലുള്ള ചെലവുകൾ മാത്രമേയുള്ളൂ ഒന്ന് സ്ഥിരമായും പരന്നതും മറ്റൊന്ന് വേരിയബളും ആണ് പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ മിക്ക ചെലവുകൾക്കും പ്രവർത്തന തോതനുസരിച്ച് മാറ്റം സംഭവിക്കുന്നു എന്നാൽ അത് നേർ അനുപാതത്തിൽ ആയിരിക്കില്ല മാറുന്നത് അതുകൊണ്ടുതന്നെ അവ മുഴുവനായും സ്ഥിരമായതോ വ്യത്യസ്തമായതോ ആയിരിക്കില്ല അങ്ങനെയുള്ള ചെലവുകളെയാണ് സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് വിളിക്കുന്നത് ഉദാഹരണം ടെലിഫോൺ ബില്ലാണ് തീർച്ചയായും ഇക്കാലത്ത് നിരവധി പദ്ധതികൾ ഉണ്ടെന്നറിയാം എന്നാൽ പരമ്പരാഗതമായി ടെലിഫോൺ വാടക എന്നൊരു ഘടകമുണ്ട് വിളികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നിരക്കിലും വർദ്ധനവുണ്ടാകുന്നു അതിനാൽ ടെലിഫോൺ ബില്ല് സെമി വേരിയബിൾ കോസ്റ്റിന് ഒരു മികച്ച ഉദാഹരണമാണ് ഞാൻ എന്താണ് പറയുന്നത് എന്നുവെച്ചാൽ ഇക്കാലത്ത് വിളികൾ സൌജന്യമായി ലഭിക്കുന്നതിന് നിരവധി പദ്ധതികളുണ്ട് വിളികളുടെ നിരക്ക് സൌജന്യമായ ഒരു പദ്ധതി നമ്മൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വിളിക്കാം അപ്പോൾ ഏതുതരത്തിലുള്ള ഉദാഹരണത്തിൽ ആണ് ടെലഫോൺ ബില്ല് ഉൾപ്പെടുക അതെ ശരിയാണ് അതൊരു നിശ്ചിത ചെലവാണ് എന്തുകൊണ്ടെന്നാൽ അത് ഒന്നോ പത്തോ പതിനഞ്ചോ അതിൽ കൂടുതലോ മാസ കാലയളവിലേക്കുള്ള ചെലവാണ് വിളികളുടെ എണ്ണത്തിനനുസരിച്ച് അതിനു മാറ്റം വരുന്നില്ല അതുകൊണ്ടുതന്നെ അതൊരു നിശ്ചിത ചെലവാണ് എന്നാൽ ഈ സാഹചര്യത്തിൽ ഇതൊരു സെമി വേരിയബിൾ ചെലവായി നൽകിയിരിക്കുന്നതെന്തുകൊണ്ടെന്നാൽ പരമ്പരാഗതമായി ഇതിൽ വാടകയും വിളികളുടെ നിരക്കും ഉൾപ്പെട്ടിട്ടുണ്ട് അതുപോലെതന്നെ പാചകവാതകത്തിനും അല്ലെങ്കിൽ വൈദ്യുതി ബില്ലുകൾക്കും വാടക ഘടകവും ഉപയോഗ ഘടകവുമുണ്ട് അതുകൊണ്ട് അവ സെമി വേരിയബിൾ ആണ് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഉദാഹരണം നൽകാമോ നമ്മളുടെ ടാക്സി വ്യവസായത്തിനായി നിങ്ങൾക്ക് സെമി വേരിയബിൾ ചെലവുകളുടെ ഏതെങ്കിലും ഉദാഹരണം നല്കാമോ സെമി വേരിയബിൾ ചെലവിന് ഒരു പ്രധാന ഉദാഹരണമാണ് അറ്റകുറ്റപ്പണി എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നു കാരണം നിങ്ങൾ ഒരു കാർ ഒരു മാസം മുഴുവൻ ഉപയോഗിക്കാതെ നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലത്തുതന്നെ ഇട്ടിരുന്നാലും കാർ ഓടുന്ന അവസ്ഥയിൽ നിലനിർത്താൻ കുറച്ച് അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും കൂടാതെ പതിവ് അറ്റകുറ്റപ്പണികളും ആവശ്യമാണ് എന്നാൽ നിങ്ങൾ കാർ ഉപയോഗിക്കുകയാണെങ്കിൽ അറ്റകുറ്റപ്പണിയുടെ ചെലവ് വർദ്ധിക്കുന്നു കൂടുതൽ ഉപയോഗിക്കുമ്പോൾ പരിപാലന ചെലവും ഉപയോഗത്തിനനുസരിച്ച് വർദ്ധിക്കുകയും ചെയ്യുന്നു അതിനാൽ അറ്റകുറ്റപ്പണികൾ സെമി വേരിയബിൾ ചെലവിന്റെ മികച്ച ഉദാഹരണമായി മാറുന്നു അതിനായി നിങ്ങൾ എങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കും ഒന്നു ചിന്തിച്ചുനോക്കൂ ഒരുപക്ഷേ 0 ൽ നിങ്ങൾക്ക് ചില സെമി വേരിയബിൾ ചെലവുകൾ വഹിക്കേണ്ടി വന്നേക്കാം അതൊരു നേർരേഖയായി ഉയരുമോ അതെ ഉയരും പക്ഷേ അതൊരു നേർ അനുപാതത്തിൽ ആയിരിക്കില്ല പകരം വളഞ്ഞതോ അല്ലെങ്കിൽ പടികളുടെ രൂപത്തിലോ ആകാം സാധാരണയായി സെമി വേരിയബിൾ ചെലവ് പടികളുടെ രൂപത്തിലാണ് എന്തുകൊണ്ടാവും ഇത് പടികളുടെ രൂപത്തിൽ ആകുന്നത് കാരണം 0 മുതൽ 100 വരെ അല്ലെങ്കിൽ ഈ ഗ്രാഫ് പ്രകാരം 200 എന്നെടുക്കുകയാണെങ്കിൽ ഈ ഗ്രാഫിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ സെമി വേരിയബിൾ കോസ്റ്റ് എന്നുപറയുന്നത് ഒരു നിശ്ചിത തലത്തിൽ ആയിരിക്കും ഒരിക്കൽ നിങ്ങൾക്ക് 200 ചെലവാക്കേണ്ടിയിരുന്ന സ്ഥാനത്ത് പെട്ടെന്ന് 225 വേണ്ടിവരും 0 മുതൽ 200 വരെ 10000 ഉണ്ടായിരുന്നത് 200 ന് അപ്പുറം 20000 ആയി മാറി പിന്നീട് അവ വീണ്ടും 400 വരെ താഴ്ന്നതായി കാണാം അതിനാൽ ഓരോ 300 കിലോമീറ്റർ കഴിയുമ്പോഴും നിങ്ങൾ ചക്രങ്ങൾ മാറ്റണമെന്ന് നമുക്ക് പറയാം അതായത് നിങ്ങൾക്ക് പുതിയ ചക്രങ്ങൾ ലഭിക്കണം ചക്രങ്ങൾ മാറ്റിയശേഷം അടുത്ത 300 കിലോമീറ്റർ ചെലവ് സ്ഥിരമായി തുടരും അടുത്ത ഘട്ടത്തിൽ 600 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ ചക്രങ്ങൾ വീണ്ടും മാറ്റേണ്ടിവരും അപ്പോൾ ചെലവ് ആദ്യം ഉയർന്ന് പിന്നെ താഴ്ന്നതായി കാണാൻ കഴിയും സാധാരണയായി സെമി വേരിയബിൾ കോസ്റ്റ് പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ് പല ആകൃതിയിലുള്ള വളവുകൾ ഉള്ളതിനാലാണ് ഞാൻ സാധാരണ എന്ന് പറഞ്ഞത് അതൊരു നേർരേഖ അല്ല വേരിയബിൾ കോസ്റ്റ് ഒരു നേർ രേഖയാണ് സെമി വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും ഒരു പരന്ന നേർരേഖയാണ് സെമി വേരിയബിൾ കോസ്റ്റ് ഇവയ്ക്ക് രണ്ടിനുമിടയിലാണ് വരുന്നത് അത് വളഞ്ഞിട്ടുമാകാം എന്നാൽ സി വി പി വിശകലനത്തെ സംബന്ധിച്ചിടത്തോളം അവ സ്ഥിരമോ വേരിയബിളോ സെമി വേരിയബിളോ ആയ നേർരേഖകളാണെന്ന് നമ്മൾ അനുമാനിക്കുന്നു ഘട്ടംഘട്ടമായാണ് സെമി വേരിയബിൾ കോസ്റ്റ് കണക്കാക്കുന്നത് മനസ്സിലായോ അടുത്തതായി കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസിലേക്ക് പോകാം അതിനെന്താണ് കണക്കിലെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം സി വി പി വിശകലനത്തിൽ മൊത്ത ചിലവ് സ്ഥിരവും അസ്ഥിരവും ആയി വിഭജിച്ച് മൊത്തവരുമാനം കണക്കാക്കുന്നു കൂടാതെ വിൽപ്പനയുടെ നിശ്ചിത തലങ്ങളിൽ നിന്നുള്ള ലാഭം കണക്കാക്കുന്നു ഒന്നുകിൽ നമ്മൾ വില്പനയുടെ തലങ്ങൾ കണക്കാക്കുന്നത് മാർക്കറ്റ് ഗവേഷണത്തെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കാം അല്ലെങ്കിൽ മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്ന ലാഭത്തിന് അനുസരിച്ച് നമ്മൾ പോകുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആഗ്രഹിച്ച ലാഭത്തിനായി ഏതുതരത്തിലുള്ള പ്രവർത്തനത്തിലേക്ക് മടങ്ങണമെന്ന് മനസ്സിലാക്കാനാണ് സാധാരണയായി സി വി പി വിശകലനം ഉപയോഗിക്കുന്നത് ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നു നമ്മൾ ബ്രേക്ക് ഇവൻ പോയിന്റ് കണക്കാക്കുന്നു ചെലവും വിൽപ്പനയും പൊരുത്തപ്പെടുന്ന ഒരു പ്രവർത്തന തലത്തെക്കുറിച്ച് പ്രവചിക്കാൻ ഇവിടെ നമ്മൾ ശ്രമിക്കുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇവിടെ ലാഭമോ നഷ്ടമോ ഉണ്ടാകുന്നില്ല മറിച്ച് വില്പനയുടെ വിവിധ തലങ്ങളിൽ ഉപയോഗിക്കുന്ന വിവിധ തലം പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് പ്രവചിക്കുന്നത് ഇത് ലാഭ ആസൂത്രണം എന്ന് അറിയപ്പെടുന്നു വിവിധ സാഹചര്യങ്ങളിൽ ബഡ്ജറ്റ് ആസൂത്രണത്തിന് ഇത് വളരെ ഉപയോഗപ്രദമാണ് വിൽപ്പനയുടെ വിവിധ തലങ്ങളിലെ പ്രവർത്തനലാഭം അറിയാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് വളരെ ഉപയോഗപ്രദമാണ് പ്രത്യേകിച്ച് വിലനിർണയ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിന് എന്തുകൊണ്ടെന്നാൽ ഇതുവഴി നമുക്ക് വിവിധ രീതികളുടെ ഉപയോഗത്തെ അടിസ്ഥാനമാക്കി ചെലവ് കണക്കാക്കാൻ കഴിയും ഇപ്പോൾ ആ ചെലവിൽ നമ്മൾ എത്ര ലാഭം ഈടാക്കണം എന്നതാണ് ചോദ്യം അത് വിലനിർണ്ണയ തീരുമാനമായി മാറുന്നു വിലനിർണ്ണയത്തിൽ സി വി പി വിശകലനം വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു കാരണം വിൽപ്പനയുടെ നിലവാരം അനുസരിച്ച് നമ്മൾ വിലകൾ തീരുമാനിക്കേണ്ടതുണ്ട് ഉപഭോക്താക്കളുടെ ചില പ്രത്യേക വിഭാഗങ്ങൾക്കായി നമ്മൾ വിവിധ തലത്തിലുള്ള കിഴിവുകൾ വാഗ്ദാനം ചെയ്യേണ്ടിവരും അല്ലെങ്കിൽ നമ്മളുടെ വിലനിർണയ തന്ത്രം മാറ്റുന്നതിനും സി വി പി വളരെ ഉപയോഗപ്രദമാണ് വിവിധ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന മിശ്രണം നിർണ്ണയിക്കുന്നതിനും ഇത് പ്രധാനമാണ് വിൽപ്പന മിശ്രണ തീരുമാനങ്ങൾക്കും ഇത് ഉപയോഗപ്രദമാണ് കാരണം നമ്മൾ ഒരു തരം ഉത്പന്നം മാത്രമല്ല കൈകാര്യം ചെയ്യുന്നത് നമ്മൾ വ്യത്യസ്ത ഉത്പന്നങ്ങൾ കൈകാര്യം ചെയ്യാം അവിടെ ഏതു ഉത്പന്നത്തിലാണ് നമ്മൾ ഊന്നൽ നൽകേണ്ടത് ഏതു ഉത്പന്നത്തിൽ ശ്രദ്ധ നൽകണം എന്നീ കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്നത് വിൽപ്പന മിശ്രണത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഒരു ചില്ലറ കച്ചവടസ്ഥാപനം നടത്തുകയാണെന്ന് വിചാരിക്കുക നമുക്ക് സാധനങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനായി പരിമിതമായ സ്ഥലം മാത്രമേ ഉള്ളൂ എന്നും കരുതുക നമുക്ക് കൂടുതൽ ലാഭം കിട്ടുന്ന ഉൽപ്പന്നത്തെ നമ്മൾ മുൻപിൽ പ്രദർശിപ്പിക്കാൻ ശ്രമിക്കും അതിന് ആദ്യം വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾക്കിടയിൽ നമുക്ക് ലാഭമുണ്ടാക്കാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങളെ തിരിച്ചറിയുകയാണ് വേണ്ടത് ഏതു ഉൽപ്പന്നത്തിന്റെ കമ്പനിയാണ് ഇപ്പോൾ വിപണിയിൽ കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്നതെന്ന് അറിയണം അതിനെയാണ് വില്പന മിശ്രണ തീരുമാനം എന്നറിയപ്പെടുന്നത് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഉപയോഗപ്രദവും ഇണങ്ങുന്നതും ആയ ബഡ്ജറ്റ് ഉണ്ടാക്കാൻ കഴിയും എന്തുകൊണ്ടെന്നാൽ പ്രവർത്തനങ്ങളുടെ വിവിധ തലങ്ങൾക്കനുസരിച്ച് നമ്മുടെ ചെലവിലും മാറ്റം വരാം അതിനാൽ നമുക്ക് ഇണങ്ങുന്ന ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുകയും വിവിധ തീരുമാനങ്ങൾ എടുക്കുന്ന സാഹചര്യങ്ങളിൽ ആ ബഡ്ജറ്റ് ഉപയോഗിക്കുകയും വേണം ഇനി സി വി പി യുടെ ലക്ഷ്യങ്ങൾ നോക്കാം സി വി പി വിശകലനത്തിൽ വിവിധ കാര്യങ്ങൾ തമ്മിലുള്ള പ്രതിപ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു ഒന്ന് വിലയുടെ അളവ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് വേരിയബിൾ ചെലവിനെ പ്രവർത്തന നിലവാരം നോക്കൂ വേരിയബിൾ ചെലവ് ചിലപ്പോൾ മൊത്തം വേരിയബിൾ ചെലവായും നൽകാറുണ്ട് എന്നാൽ അതിന് ഓരോ യൂണിറ്റ് അടിസ്ഥാനത്തിൽ മാറ്റം സംഭവിക്കുന്നതിനാൽ യൂണിറ്റ് അടിസ്ഥാനത്തിൽ ഉള്ള വേരിയബിൾ ചെലവ് കണക്കാക്കാൻ കഴിയും അപ്പോൾ മൊത്ത സ്ഥിര ചെലവും ഓരോ യൂണിറ്റ് അടിസ്ഥാനത്തിൽ കണക്കാക്കാൻ കഴിയും എന്നാൽ ഇതിനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ കഴിയും കാരണം ഇതിന് യൂണിറ്റ് അടിസ്ഥാനത്തിനു പകരം ഓരോ യൂണിറ്റിന്റെയും അടിസ്ഥാനത്തിലാണ് മാറ്റം സംഭവിക്കുന്നത് അതിനാൽ മൊത്തം നിശ്ചിത ചെലവ് എടുക്കുന്നതാണ് നല്ലത് ഒപ്പം വിൽക്കുന്ന ഉൽപ്പന്നങ്ങളുടെ മിശ്രണവും നോക്കണം നമ്മൾ എ ബി സി എന്നീ ഉത്പന്നങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് കരുതുക അവ ഏതൊക്കെ വ്യത്യസ്ത മിശ്രണങ്ങളിൽ വിൽക്കാൻ കഴിയും എന്ന് നോക്കേണ്ടതുണ്ട് കാരണം ചില ഉൽപ്പന്നങ്ങൾ പരസ്പരം മത്സരിക്കുന്നതും മറ്റു ചിലത് പരസ്പരപൂരകങ്ങളും ആയിരിക്കാം അതുകൊണ്ട് ലഭ്യമായ വിവിധ വിൽപ്പന മിശ്രണങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കേണ്ടതുണ്ട് സാധാരണയായി സി വി പി വിശകലനം ചില അനുമാനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എല്ലാ ചെലവുളെയും വേരിയബിൾ അല്ലെങ്കിൽ സ്ഥിരമായി തരംതിരിക്കാം എന്നതാണ് പ്രധാന അനുമാനം ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ യഥാർത്ഥ ജീവിതച്ചെലവുകളിൽ ഭൂരിഭാഗവും യഥാർത്ഥത്തിൽ അർദ്ധ വേരിയബിളാണ് അവ പൂർണ്ണമായും വേരിയബിൾ അല്ലെങ്കിൽ സ്ഥിരമായിരിക്കില്ല പക്ഷേ നമ്മൾ ചെയ്യുന്നത് ഒരു സെമി വേരിയബിൾ ചെലവാണെങ്കിൽ നമ്മൾ അതിനെ വേരിയബിൾ ഘടകമായും സ്ഥിര ഘടകമായും വിഭജിക്കുന്നു എല്ലാ ചെലവും വേരിയബിളും സ്ഥിരവും ആയി വിഭജിക്കാൻ കഴിയുമെന്നതാണ് അനുമാനങ്ങളിലൊന്ന് ഈ അനുമാനങ്ങളിൽ ചിലത് പൂർണ്ണമായി ശരിയല്ലെന്ന് ഓർമ്മിക്കുക അഞ്ച് ശതമാനം ചെലവ് ചിലപ്പോൾ തരംതിരിക്കാൻ കഴിഞ്ഞെന്നു വരില്ല പക്ഷേ ഇത് നമ്മളുടെ കണക്കുകൂട്ടലിന്റെ കൃത്യത കുറയ്ക്കുന്നില്ല കാരണം ഒരു അനിശ്ചിതത്വ സാഹചര്യത്തിൽ നമ്മൾ തീരുമാനമെടുക്കേണ്ടതുണ്ട് ഈ അനുമാനങ്ങൾ മനസ്സിൽ വയ്ക്കുകയും നമ്മളുടെ കണക്കുകൂട്ടലുകൾ നടത്തുകയും ചെയ്യുക അവ ഏറിയും കുറഞ്ഞും ശരിയായ തീരുമാനങ്ങളായിരിക്കും അതുകൊണ്ടാണ് ഈ അനുമാനങ്ങൾ വളരെ ഉപയോഗപ്രദവും ഒരു പരിധിവരെ അവ ലംഘിക്കപ്പെടുന്നതുമാണ് കൂടാതെ ഇതൊരു തീരുമാനത്തിന്റെ കൃത്യതയെയോ ന്യായത്തെയോ ബാധിക്കില്ല അടുത്തത് സി വി പി ബന്ധങ്ങൾ ഉൽപ്പാദനത്തിലും വിൽപ്പനയിലും രേഖീയമാണ് ഞാനൊന്ന് തിരികെ പോകാം ഒരു നിശ്ചിത ചെലവ് ഗ്രാഫ് നമ്മൾ ഇവിടെ കണ്ടു അത് പരന്ന ഒരു രേഖ അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റായാണ് നമ്മൾ അനുമാനിക്കുന്നത് ഈ ചെലവ് രേഖീയമാണെന്ന സി വി പി അനുമാനം അനുസരിച്ച് ഒരു രേഖ ലംബമായി മുകളിലേക്ക് പോകുന്നു യഥാർത്ഥത്തിൽ അവർ ചെറുതായി മുകളിലേക്കോ താഴേക്ക് പോകുന്ന വളവുകൾ ആയിരിക്കാം എന്നാൽ നമ്മുടെ ആവശ്യത്തിനായി വീണ്ടും നമുക്കൊരു രേഖീയ ബന്ധം അനുമാനിക്കേതായി വരും ന്യായമായ പരിധിക്കുള്ളിൽ അവ യഥാർത്ഥത്തിൽ രേഖീയമാണെന്ന് ഓർമിക്കുക ഉദാഹരണത്തിന് 0 മുതൽ 800 വരെ അവ രേഖീയമായിരിക്കും എന്നാൽ അതിനുശേഷം ചെറിയ ചില മാറ്റങ്ങൾ ഉണ്ടാകാം എന്നാൽ സി വി പി വിശകലനം ഒരു ഹ്രസ്വകാല തീരുമാനമെടുക്കുന്നതിന് വളരെ ഉപയോഗപ്രദമാണ് കൂടാതെ അത് ന്യായമായ പരിധിക്കുള്ളിലുമാണ് നിങ്ങൾ 700 യൂണിറ്റുകൾ Unit's നിർമ്മിക്കുന്നു എന്ന് കരുതുക അടുത്ത 100 യൂണിറ്റുകൾ കൂടി നിർമ്മിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് സി വി പി ഉപയോഗപ്രദമാണ് നിങ്ങളുടെ രേഖീയ അനുമാനം കൃത്യതയെ ബാധിക്കില്ല 5000 യൂണിറ്റുകൾ Unit's നിർമ്മിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക തുടർന്ന് നിങ്ങൾ വ്യത്യസ്ത രീതികളിലേക്ക് പോകേണ്ടിവരും അതിനാൽ നിങ്ങളുടെ അടുത്ത അനുമാനം ആദ്യത്തെ രണ്ട് അനുമാനങ്ങളായ വിൽപ്പന വിലകൾ വേരിയബിൾ ചെലവുകൾ മൊത്തം സ്ഥിരമായ ചിലവ് എന്നിവ പ്രസക്തമായ പരിധിക്കുള്ളിൽ വ്യത്യാസപ്പെടുന്നില്ല എന്നതാണ് ഈ അനുമാനം ന്യായമായ ശ്രേണിയെ സംബന്ധിച്ചിടത്തോളം വളരെ ശരിയാണ് അടുത്ത മൂന്ന് അനുമാനങ്ങളിൽ പറയുന്നത് അളവാണ് ചെലവിനെ നയിക്കുന്നത് എന്നാണ് അതിനാൽ വിലനിലവാരത്തിലെ മാറ്റങ്ങളോ ചില അസംസ്കൃത വസ്തുക്കളുടെ വിലയിലെ മാറ്റങ്ങളോ പോലുള്ള മറ്റ് ചെലവുകൾ നമ്മൾ കണക്കിലെടുക്കുന്നില്ല ഇവിടെ നമ്മൾ അനുമാനിക്കുന്നത് ചെലവിൽ ഉണ്ടാകുന്ന മാറ്റത്തിന് പ്രധാനകാരണം അളവാണെന്നാണ് ഇവിടെ അളവിന് വ്യക്തമായ പരിധി സൂചിപ്പിക്കുന്നുണ്ട് നമ്മൾ 0 ത്തിനും 1200 യൂണിറ്റിനും Unit's ഇടയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ കണക്കുകൂട്ടലുകളുടെ പരിധി ശരിയാകാം ചരക്കു പട്ടികകൾ ഇവിടെ അവഗണിക്കപ്പെടുന്നു ഒപ്പം അവ മാറ്റമില്ലാതെ തുടരുമെന്ന് അനുമാനിക്കുന്നു ആ കാലയളവിൽ വിൽപ്പന മിശ്രണം മാറില്ലെന്ന് നമ്മൾ അനുമാനിക്കുന്നു അതിനാൽ നൽകിയിരിക്കുന്ന വിൽപ്പന മിശ്രണത്തിനായി നമ്മൾ ഈ കാലയളവ് കണക്കാക്കുന്നു ഈ അനുമാനങ്ങൾ കണക്കിലെടുക്കുമ്പോൾ തെറ്റിയാൽ എന്ത് സംഭവിക്കും എന്നോർത്ത് നിങ്ങൾ നിരുത്സാഹപ്പെടുത്തരുത് ആദ്യമായി അനുമാനങ്ങളെ അടിസ്ഥാനമാക്കി നമ്മൾ ചില കണക്കുകൂട്ടലുകൾ നടത്തുന്നു പിന്നീട് നമുക്ക് അവയിൽ അയവു വരുത്താം അല്ലെങ്കിൽ അനുമാനങ്ങളെ ഓരോന്നോരോന്നായി മാറാൻ അനുവദിക്കുകയും അതനുസരിച്ച് സെൻസിറ്റിവിറ്റി വിശകലനം നടത്തുകയും ചെയ്യാം അതിനാൽ നമുക്ക് നമ്മുടെ കണക്കുകൂട്ടൽ അൽപ്പം മാറ്റാം ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ചില തീരുമാനങ്ങളിൽ എത്തിച്ചേരും അത് ന്യായമായും ശരിയാകും അതിനാൽ ഹ്രസ്വകാല തീരുമാനങ്ങൾ എടുക്കുന്നതിന് സി വി പി വിശകലനം വളരെ ഉപയോഗപ്രദമാണ് അടുത്ത ഭാഗത്തിൽ നമ്മൾ ചർച്ച തുടരും